ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതയും സുരക്ഷയും കോഴ്സിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രഭാഷണം നടത്തിയ പ്രവണത തുടരുന്നതിനാൽ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങളിൽ നിന്നുള്ള സ്വകാര്യത ചോർച്ചയുടെ പ്രശ്നം അടിസ്ഥാനപരമായി അഭിസംബോധന ചെയ്യുന്ന ചില പേപ്പറുകൾ ഞാൻ നോക്കുന്നത് തുടരുകയാണ് അവസാന പ്രഭാഷണം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഫോർസ്ക്വയറിൽ നോക്കിയ ഒരു പേപ്പർ ഞങ്ങളുടെ പക്കലുണ്ടായിരുന്നു ഒരു വ്യക്തി എവിടെയാണ് താമസിക്കുന്നതെന്ന് അവർക്ക് എങ്ങനെ തിരിച്ചറിയാനാകുമെന്ന് പേപ്പർ വിശകലനം ചെയ്തു അത് ഫോർസ്ക്വയർ മേയർഷിപ്പും നുറുങ്ങുകളും സംഭാവനകളും മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഏതാണ്ട് ഒരേ വിഷയമാണ് എന്നാൽ ഞങ്ങൾ അതിനെ വ്യത്യസ്ത സോഷ്യൽ നെറ്റ്വർക്കുകളുമായി താരതമ്യം ചെയ്യാൻ പോകുന്നു അതിനാൽ ഈ പേപ്പറിൽ നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ എഴുത്തുകാർ നിലവിൽ ഏറ്റവും പ്രചാരമുള്ള മൂന്ന് സോഷ്യൽ നെറ്റ്വർക്കുകളായ ഫോർസ്ക്വയർ ഗൂഗിൾ പ്ലസ് ട്വിറ്റർ എന്നിവയിൽ വലിയ തോതിൽ അനുമാന പഠനം നടത്തുന്നു അതിനാൽ ഈ പേപ്പറിലെ ലക്ഷ്യം ഞങ്ങൾ കഴിഞ്ഞ തവണ കണ്ട പേപ്പറുമായി വളരെ സാമ്യമുള്ളതാണ് എന്നാൽ ഇത് ഫോർസ്ക്വയറിൽ മാത്രമല്ല വ്യത്യസ്ത സോഷ്യൽ നെറ്റ്വർക്കുകളിലേക്ക് നോക്കുന്നു അതിനാൽ രചയിതാക്കൾ ഫോർസ്ക്വയർ ഗൂഗിൾ പ്ലസ് ട്വിറ്റർ എന്നിവ നോക്കി ഈ കോഴ്സിന്റെ ഭാഗമായി മൂന്ന് സോഷ്യൽ നെറ്റ്വർക്കുകളും അവയുടെ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലും നടത്തിയ ഡാറ്റ ശേഖരണത്തിന്റെയും സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ശേഖരിക്കാനാകുന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇതിനകം കണ്ടിട്ടുണ്ട് ഫോഴ്സ്ക്വയർ ഗൂഗിൾ പ്ലസ് ട്വിറ്റർ എന്നിവയിൽ 67 ശതമാനം ഗൂഗിൾ പ്ലസ് ട്വിറ്റർ എന്നിവയിൽ 67 ശതമാനം ഗൂഗിൾ പ്ലസിന് 72 ശതമാനം എന്നിങ്ങനെ ഉപയോക്താക്കളുടെ ഹോം സിറ്റിയെ ഉയർന്ന കൃത്യതയോടെ അനുമാനിക്കാൻ കഴിയുമെന്ന് രചയിതാക്കൾ കണ്ടെത്തി ട്വിറ്ററിന് 82 ശതമാനവും ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് വീട്ടിലെ ലൊക്കേഷൻ കണ്ടെത്തുന്നതിൽ ട്വിറ്റർ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഉയർന്നതെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകും അതിനാൽ കഴിഞ്ഞ തവണ കണ്ട അതേ ഘടന ആമുഖം ലൊക്കേഷൻ അധിഷ്ഠിത സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്താണെന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പേപ്പർ നോക്കാം ഗൂഗിൾ പ്ലസ് ഫോർസ്ക്വയർ ട്വിറ്റർ തുടങ്ങിയ വ്യത്യസ്ത സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ നിന്നും ഡാറ്റ ശേഖരിക്കുന്നതിനെക്കുറിച്ചും ഫോർസ്ക്വയർ ഗൂഗിൾ പ്ലസ് ട്വിറ്റർ എന്നിവയുടെ പശ്ചാത്തലത്തിൽ നടത്തിയ വ്യത്യസ്ത ഗവേഷണങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ഞാൻ ശേഖരിച്ച വിവരങ്ങൾ പേപ്പറിന്റെ തന്നെ നിഗമനങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് തുടർന്ന് പേപ്പർ എങ്ങനെ പരമാവധി വിവരം എടുക്കുന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നു അതിനാൽ ഇത് പൊതുവെ ഞങ്ങൾ അവസാനമായി കണ്ട ഘടനയാണ് അതായത് ഘടന കാണുന്നതായി കാണപ്പെടുന്ന മിക്കവാറും എല്ലാ പേപ്പറുകളും പ്രശ്നത്തിന്റെ വിദൂരകാഴ്ച വിവരിക്കുന്ന ഒരു ഖണ്ഡികയ്ക്ക് തുല്യമായിരിക്കും തുടർന്ന് നിലവിലെ പ്രശ്നത്തെക്കുറിച്ചും എന്താണ് കാണാതായതെന്നുമുള്ള ഖണ്ഡിക പിന്നെ എന്താണ് ഈ പേപ്പറിൽ എന്താണ് ചെയ്തത് തുടർന്ന് ഈ പേപ്പറിൽ നിന്നുള്ള ചില സംഭാവനകൾ എന്നിവയെക്കുറിച്ചുള്ള ഖണ്ഡിക ബന്ധപ്പെട്ട ജോലി വീണ്ടും ഈ പ്രത്യേക അനുബന്ധ ജോലിയിൽ ഞാൻ വിശദമായി പോകുന്നില്ല എന്നാൽ ബന്ധപ്പെട്ട ജോലികൾ പൊതുവെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള സ്വകാര്യത ചോർച്ചകളെക്കുറിച്ചും ഈ മൂന്ന് സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതിലും നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു കഴിഞ്ഞ പേപ്പറിൽ നമ്മൾ കണ്ട ടെർമിനോളജികൾ അവതരിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന സോഷ്യൽ നെറ്റ്വർക്കിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ എഴുതാൻ ഗവേഷകർ പലപ്പോഴും ശ്രമിക്കാറുണ്ട് ഇവിടെ അത് ഫോർസ്ക്വയറിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ ഗൂഗിൾ പ്ലസും പിന്നെ ട്വിറ്ററും ഉണ്ടാകും അതിനാൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ പഠനത്തിൽ ഉപയോഗിച്ച ഡാറ്റാസെറ്റ് അവസാന പേപ്പറിന് സമാനമാണ് 2011 ഒക്ടോബറിനുള്ളിൽ ഡാറ്റാസെറ്റ് ക്രോൾ ചെയ്തു സിസ്റ്റത്തിലൂടെ 13 ദശലക്ഷം ഉപയോക്താക്കളും ഏകദേശം 16 ദശലക്ഷം വ്യത്യസ്ത വേദികളും ഉൾപ്പെടുന്നു ഉപയോക്തൃ ഹോം സിറ്റി ഒരു ഓപ്ഷണൽ ഓപ്പൺ ടെക്സ്റ്റ് ഫീൽഡാണ് അത് ഏകദേശം 100 പ്രതീകങ്ങളിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു വേദിയിൽ തുറന്ന വാചക ഫീൽഡുകൾ അതായത് നഗരം വിലാസം എന്നിവ യഥാക്രമം 30 127 പ്രതീകങ്ങളായി പരിമിതപ്പെടുത്തിയിരിക്കുന്നതായി ലൊക്കേഷൻ നിർവ്വചിക്കണം അതാണ് ഇത്തരത്തിലുള്ള ഡാറ്റ നിങ്ങൾ ഈ ഡാറ്റ വേദി നുറുങ്ങുകൾ സംഭാവനകൾ എന്നിവയ്ക്കായി ശേഖരിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരമാണ് അതിനാൽ മുഴുവൻ ഡാറ്റാസെറ്റും ഏകദേശം 15 ദശലക്ഷം മേയർഷിപ്പുകളും 11 ദശലക്ഷം ടിപ്പുകളും ഏകദേശം പത്ത് ദശലക്ഷം ലൈക്കുകളും ആണ് അങ്ങനെയാകട്ടെ അതിനാൽ ഫോർസ്ക്വയർ പദങ്ങളുടെ അടിസ്ഥാനത്തിൽ ലൈക്കുകൾ അടിസ്ഥാനപരമായി സംഭാവനയാണ് അതിനാൽ ഇപ്പോൾ ഗൂഗിൾ പ്ലസ് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഗൂഗിൾ പ്ലസ് അടിസ്ഥാനപരമായി വളരെ സാമ്യമുള്ള ഒരു നെറ്റ്വർക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു ജിമെയിൽ അക്കൌണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗൂഗിൾ പ്ലസ് അക്കൌണ്ട് ഉണ്ട് HTTP അഭ്യർത്ഥനകളിലൂടെ മൊത്തം 27 ദശലക്ഷം പ്രൊഫൈൽ പേജുകൾ ക്രോൾ ചെയ്തു 7 മില്യൺ അവർ താമസിക്കുന്ന ഒരു സ്ഥലമെങ്കിലും നിർവചിച്ചു കൂടാതെ 5000 വിലാസ വിവരങ്ങളും ഏകദേശം 7 ദശലക്ഷം പേരും അവരുടെ വിദ്യാഭ്യാസം നിറച്ചു ഏകദേശം 6 ദശലക്ഷത്തോളം പേർ അവരുടെ ജോലിയിൽ നിറഞ്ഞു അതിനാൽ ഇവ വിശദാംശങ്ങളാണ് അതിനർത്ഥം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്ക് ഓർമ്മിക്കുകയാണെങ്കിൽ അത് Facebook പോലെയാണ് നിങ്ങൾ താമസിക്കുന്ന ശരിയായ സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ നിങ്ങൾ പഠിക്കുന്ന കോളേജുകളിൽ ഈ വിശദാംശങ്ങളെല്ലാം ഉണ്ട് നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങൾ നിങ്ങൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഈ വിവരങ്ങളെല്ലാം ഉപയോക്താക്കളിൽ നിന്ന് എടുത്തതാണ് അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് 7 ദശലക്ഷം ആളുകൾ അവരുടെ വിദ്യാഭ്യാസം വ്യക്തമായും 6 ദശലക്ഷം ആളുകൾ അവരുടെ തൊഴിൽ വിശദാംശങ്ങൾ വ്യക്തമായും പ്രസ്താവിച്ചിട്ടുണ്ട് ഞാൻ ഡൽഹി ഐഐഐടിയിൽ ജോലി ചെയ്യുന്നു ഇനി നമുക്ക് ട്വിറ്ററിൽ നിന്നുള്ള ഡാറ്റ നോക്കാം അതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന സ്ട്രീമിംഗ് API ഉപയോഗിച്ചാണ് ട്വിറ്ററിൽ നിന്നുള്ള ഡാറ്റ ശേഖരിച്ചത് 2012 ഏപ്രിൽ മുതൽ ജൂൺ വരെ ഏകദേശം 20 ദശലക്ഷം അദ്വിതീയ ഉപയോക്താക്കൾ പോസ്റ്റ് ചെയ്ത 120 ദശലക്ഷം ട്വീറ്റുകൾക്കായി ക്രാൾ ചെയ്തു ഉപയോക്താക്കൾ പോസ്റ്റുചെയ്ത 0 5 ശതമാനം പോസ്റ്റുകളും ഭൂമിശാസ്ത്രപരമായി ടാഗുചെയ്തിട്ടുണ്ട് അതിനാൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് മൊത്തം പോസ്റ്റുകളുടെ 0 5 ശതമാനം മാത്രമേ ശേഖരിക്കപ്പെട്ടിട്ടുള്ളൂ എന്നാണ് ഇതിനർത്ഥം പോസ്റ്റിനായി ജിയോടാഗ് ചെയ്ത വിവരങ്ങൾ ഉണ്ട് അത് ഉപയോക്താക്കൾക്കും ജിയോടാഗ് ചെയ്ത വിവരങ്ങളാണ് ഏകദേശം 700000 ട്വീറ്റുകളും 300000 അദ്വിതീയ ഉപയോക്താക്കളും ഉണ്ടായിരുന്നു അതാണ് കൃത്യമായ സ്ഥാനം പണ്ട് നമ്മൾ ചർച്ച ചെയ്തതാണ് അത് പോസ്റ്റ് വരുന്ന അക്ഷരത്തിന്റെ അക്ഷാംശവും രേഖാംശവുമാണ് അതിനാൽ ഡാറ്റാസെറ്റിനെക്കുറിച്ചുള്ള പശ്ചാത്തലം അതാണ് പ്രധാനമായും അവരെല്ലാവരും ട്വിറ്ററിൽ ദശലക്ഷങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് ഏകദേശം 0 5 ദശലക്ഷം ഭൂമിശാസ്ത്രപരമായി ടാഗുചെയ്ത ട്വീറ്റുകളാണ് ഗൂഗിൾ പ്ലസിൽ ഏകദേശം 27 ദശലക്ഷം പ്രൊഫൈലുകൾ ഇഴഞ്ഞു നീങ്ങി ഏകദേശം 7 ദശലക്ഷം വിദ്യാഭ്യാസവും 6 ദശലക്ഷം തൊഴിലവസരങ്ങളും ഫോർസ്ക്വയറിൽ ഏകദേശം 16 ദശലക്ഷം മേയർ പദവിയുടെ വിശദാംശങ്ങളുണ്ട് 11 ദശലക്ഷം നുറുങ്ങുകളും 10 ദശലക്ഷം ലൈക്കുകളും വിശകലനം ചെയ്യാനും വ്യക്തിയുടെ ഹോം ലൊക്കേഷനെക്കുറിച്ചുള്ള അനുമാനങ്ങൾ കണ്ടെത്താനും ഞങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഡാറ്റാസെറ്റ് അതാണ് അതിനാൽ ഏതെങ്കിലും ഡാറ്റ സെറ്റിൽ നിങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പര്യവേക്ഷണ ഡാറ്റ വിശകലനം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ ഡാറ്റ സെറ്റ് എങ്ങനെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം ഇത് ആ ഗവേഷണത്തിന്റെ പുനർനിർമ്മാണത്തെ സഹായിക്കും യഥാർത്ഥത്തിൽ ഡാറ്റ ശേഖരിക്കാൻ ഇത് മറ്റുള്ളവരെ സഹായിക്കും അങ്ങനെയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾ ശേഖരിച്ചതിന് വളരെ സാമ്യമുള്ള ഡാറ്റ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എന്നതാണ് ഇവിടെയുള്ള കാര്യം നിങ്ങൾ ചെയ്ത അതേ വിശകലനം മറ്റുള്ളവർ ചെയ്യണമെങ്കിൽ ഫലങ്ങൾ ഒന്നുതന്നെയായിരിക്കണം അതാണ് ഗവേഷണത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള ആശയം അതിനാൽ നിങ്ങൾ എങ്ങനെയാണ് ഡാറ്റ ശേഖരിച്ചതെന്ന് വിശദീകരിക്കുക ഡാറ്റ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് വിശദീകരിക്കുക യഥാർത്ഥത്തിൽ ഈ ഗവേഷണ പ്രബന്ധങ്ങൾ എഴുതുന്ന കാര്യത്തിൽ വളരെ പ്രധാനമാണ് അതിനാൽ ഓരോ ഡാറ്റാസെറ്റിലും പരിഗണിക്കപ്പെടുന്ന എല്ലാ ആട്രിബ്യൂട്ടുകളുടെയും ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളുടെ വിതരണം പട്ടിക ഒന്ന് നൽകുന്നു സാധുവായ ഭൂമിശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്ന അതിന്റെ ശതമാനം ഞങ്ങൾ ഓരോ ആട്രിബ്യൂട്ടിനും അവതരിപ്പിക്കുന്നു നമുക്ക് പട്ടികകൾ നോക്കാം അതിനാൽ ഈ പട്ടികയാണ് സൂചിപ്പിക്കുന്നത് ഡാറ്റാസെറ്റുകളിലെ വിവിധ ആട്രിബ്യൂട്ടുകളിൽ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ഈ പട്ടിക സംസാരിക്കുന്നു അതിനാൽ നിങ്ങൾ രണ്ടാമത്തെ നിര നോക്കിയാൽ അത് ഫോർസ്ക്വയർ ആണ് അതിനാൽ നിരകളെ മൂന്ന് വ്യത്യസ്ത നെറ്റ്വർക്കുകൾ പരാമർശിക്കുന്നു ഫോർസ്ക്വയർ ഗൂഗിൾ പ്ലസ് ട്വിറ്റർ നിങ്ങൾ വരികളിലുള്ള സ്ഥിതിവിവരക്കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് സാധുവായ UGI ആണ് അത് ഉപയോക്താവിന്റെ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ സാധുവായ AGI സാധുവായ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ അത് ശൂന്യമാണ് അതിനാൽ സാധുവായ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ സാധുവായതും അവ്യക്തവുമായ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ സാധുവായ അവ്യക്തമായ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ സാധുതയുള്ള ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ശൂന്യമായവ എന്നിവ ലഭ്യമായ ഡാറ്റയുടെ അളവ് എത്രയെന്ന് കണ്ടെത്താൻ ഇത് അടിസ്ഥാനപരമായി നിങ്ങളെ സഹായിക്കും ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് ഞാൻ ഇത് വിശദീകരിക്കാൻ ശ്രമിക്കും സാധുവായതും അവ്യക്തവുമായ ഇത് യഥാർത്ഥത്തിൽ അക്ഷാംശമോ രേഖാംശമോ ആണ് ഇത് യഥാർത്ഥത്തിൽ ന്യൂഡൽഹി ആണ് അതിൽ അവ്യക്തതയില്ല സാധുവായ അവ്യക്തത വ്യക്തമല്ല അതിനാൽ ഇത് താജ് മഹലിന് സമീപം അല്ലെങ്കിൽ ഗോവിന്ദ്പുരി മെട്രോ സ്റ്റേഷനു സമീപം പറയുന്നു അതിനാൽ ഈ കാര്യങ്ങൾ അവ്യക്തമാണ് ജിഐ ഇതര ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളല്ല ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അത് ആരുടെയെങ്കിലും ഹൃദയമായിരിക്കാം അത്തരം വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളല്ല ചിലപ്പോൾ അത് ശൂന്യമായിരിക്കാം അതിനാൽ അടിസ്ഥാനപരമായി അതാണ് മൂല്യങ്ങളിൽ നൽകുന്നത് ഉപയോക്താവിന്റെ ഹോം സിറ്റി 95 ശതമാനമാണെന്നും അവ്യക്തത 2 6 ശതമാനമാണെന്നും ജിഐ അല്ലാത്തത് 1 8 ശതമാനമാണെന്നും ശൂന്യമായിരിക്കുന്നത് 0 2 ശതമാനമാണെന്നും പറയുന്ന ശതമാനമാണ് അവയെല്ലാം അതിനാൽ ഫോർസ്ക്വയറിൽ ഇത് ഉപയോക്താവിന്റെ ഹോം സിറ്റി വേദി സിറ്റി എന്നിവയാണ് ഗൂഗിൾ പ്ലസിൽ ഇത് താമസസ്ഥലവും വിദ്യാഭ്യാസവും ജോലിയും ഉള്ള സ്ഥലമാണ് ട്വിറ്ററിൽ ഇത് ഉപയോക്തൃ ലൊക്കേഷൻ ജിയോടാഗ് ചെയ്ത ട്വീറ്റാണ് അതിനാൽ ഇത് അടിസ്ഥാനപരമായി നിങ്ങളോട് പറയുന്നത് വ്യത്യസ്ത നെറ്റ്വർക്കുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത സോഷ്യൽ നെറ്റ്വർക്കുകളിൽ നിന്നുള്ള ഈ വ്യത്യസ്ത വിവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഒരു മുഴുവൻ ഗവേഷണമാണ് അപ്പോൾ ഫോഴ്സ്ക്വയർ ഒരു ഉപയോക്താവിന്റെ ഹോം സിറ്റി വേദിയാണ് ഗൂഗിൾ പ്ലസിൽ വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും അഭിസംബോധന ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇത് ട്വിറ്ററുകളിൽ ഇത് ഉപയോക്തൃ ലൊക്കേഷനും ജിയോ ടാഗ് ചെയ്ത ട്വീറ്റുമാണ് അതിനാൽ ട്വിറ്ററിൽ നിന്നുള്ള ജിയോ ടാഗുചെയ്ത ട്വീറ്റുകൾക്കുള്ള അവ്യക്തമായ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ഏകദേശം 100 ശതമാനമാണ് ശേഖരിച്ച എല്ലാ ട്വീറ്റുകളും യഥാർത്ഥത്തിൽ 0 5 ശതമാനത്തിൽ ജിയോടാഗ് ചെയ്ത വിവരങ്ങൾ ഉള്ളതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഏത് തരം ഡാറ്റയാണ് ശേഖരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഗൂഗിൾ പ്ലസിന്റെ കാര്യത്തിൽ 53 ശതമാനം പേർക്കും അവ്യക്തമായ വിദ്യാഭ്യാസമുണ്ട് അതിനാൽ ഞാൻ കാർനെഗി മെലോൺ സർവകലാശാലയിൽ പഠിച്ചു അതിനാൽ അത് വളരെ കൃത്യമാണ് അവ്യക്തതയുണ്ട് ഒരു പ്രശ്നവുമില്ല യഥാർത്ഥത്തിൽ അതിനെ വീണ്ടും കോഡ് ചെയ്യുകയോ ഒരു പ്രത്യേക സർവകലാശാലയിലേക്ക് ഡീകോഡ് ചെയ്യുകയോ ചെയ്യുന്നു അതിനാൽ ഈ ഡാറ്റ ഉപയോഗിച്ച് നടത്തിയ വ്യത്യസ്ത കണക്കുകളും വ്യത്യസ്ത വിശകലനങ്ങളും നമുക്ക് നോക്കാം ചിത്രം 1 ഫോഴ്സ്ക്വയർ ഉപയോക്താക്കളിൽ 80 ശതമാനത്തിനും നഗര തലത്തിൽ ലൊക്കേഷൻ വിവരങ്ങൾ ഉണ്ട് 6 ശതമാനവും 7 4 ശതമാനം ഉപയോക്താക്കളും വേദികളും ഒരു സംസ്ഥാനത്തിലോ രാജ്യ തലത്തിലോ കൂടുതൽ ലൊക്കേഷൻ ഗ്രാനുലാരിറ്റികൾ അവതരിപ്പിക്കുന്നു അതിനാൽ ഞങ്ങൾ കണക്കുകൾ നോക്കുന്നു അതിനാൽ ഇത് ചിത്രം 1 എ 1 ബി 1 സി എന്നിവയാണ് അതിനാൽ സാധുവായതും അവ്യക്തവുമായ ഭൂമിശാസ്ത്രപരമായ വിവരങ്ങളുടെ ഗുണനിലവാരം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫോർസ്ക്വയർ നിങ്ങൾ നഗരം നോക്കിയാൽ ഉപയോക്താക്കളുടെ ഹോം സിറ്റി വേദി സിറ്റി എന്നിവ നിങ്ങൾക്ക് നൽകുന്നു ഇത് ഏകദേശം എൺപത് ശതമാനത്തോളമാണ് അതിനാൽ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ബഹുഭൂരിപക്ഷം വരുന്ന ഫോർസ്ക്വയർ ഉപയോക്താക്കളിൽ 80 ശതമാനവും സ്ഥലങ്ങളിൽ നഗര തലത്തിൽ ലൊക്കേഷൻ വിവരങ്ങളും ഉണ്ടെന്ന് ഇത് പറയുന്നു ചിലർക്ക് രാജ്യ തലത്തിലും ചിലർക്ക് സംസ്ഥാന തലത്തിലും ചിലർക്ക് തെരുവ് തലത്തിലും ഉണ്ട് അതിനാൽ വിവിധ തലത്തിലുള്ള വിശദാംശങ്ങളാണ് ഫോർസ്ക്വയറിൽ നിന്ന് ലൊക്കേഷനായി ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ലഭ്യമാകുന്നത് അതിനാൽ നിങ്ങൾ ഗൂഗിൾ പ്ലസ് നോക്കുകയാണെങ്കിൽ വിവരങ്ങൾ പരമാവധി ലഭ്യമാണ് ഉദാഹരണത്തിന് നഗര തലത്തിൽ 70 ശതമാനമോ 70 പ്ലസ് ശതമാനമോ ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് അതിനാൽ അതാണ് ഇവിടെ എഴുതുന്നത് ഒരേ ഉപയോക്തൃ സ്വഭാവം ഗൂഗിൾ പ്ലസ് 1 ബി ചിത്രം 1 സി എന്നിവയിൽ നിരീക്ഷിക്കപ്പെടുന്നു അവിടെ സിസ്റ്റത്തിന്റെ ഭൂരിഭാഗം ഉപയോക്താക്കളും യഥാക്രമം 79 63 62 54 നഗര തലത്തിൽ ഹോം ലൊക്കേഷൻ നൽകുന്നു താമസിക്കുന്ന സ്ഥലങ്ങളുടെ കാര്യത്തിൽ നഗരം ഏറ്റവും ഉയർന്നതാണ് ഉപയോക്താക്കളുടെ ലൊക്കേഷനിലും നഗരം ഉയർന്നതാണ് അതിനാൽ അടിസ്ഥാനപരമായി ഒരു പ്രശ്നവുമില്ലാതെ നമുക്ക് നഗര തലത്തിലുള്ള വിവരങ്ങൾ നേടാൻ കഴിയണമെന്ന് അടിസ്ഥാനപരമായി പറയുന്നു കാരണം ഒരു വലിയ അളവിലുള്ള ഡാറ്റ ഉപയോക്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ നഗര തലത്തിൽ ലഭ്യമാണ് ഇപ്പോൾ ഈ ഡാറ്റ ഉപയോഗിച്ച് കൂടുതൽ വിശകലനം നോക്കാം അതിനാൽ ഇപ്പോൾ ചിത്രം 2 എ ഉടമസ്ഥതയിലുള്ള മേയർമാരുടെ എണ്ണം നുറുങ്ങുകൾ പോസ്റ്റുചെയ്തതും ഇഷ്ടപ്പെടുന്നതുമായ സംഖ്യകളുടെ വിതരണം കാണിക്കുന്നു അവസാന പേപ്പറിൽ പോലും നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രാഫ് ഞങ്ങൾ കണ്ടു ഇത് മേയർമാരുടെ എണ്ണം നുറുങ്ങുകൾ സംഭാവനകൾ എന്നിവയുടെ ശരിയായ വിതരണം കാണിക്കുന്നതിനാണ് അതിനാൽ നിങ്ങൾ ഗ്രാഫ് ഓർക്കുന്നുവെങ്കിൽ ധാരാളം മേയർ പദവികൾ ഉള്ള ഒരു ചെറിയ കൂട്ടം ആളുകളും കുറച്ച് മേയർ പദവികൾ ഉള്ള ഒരു വലിയ കൂട്ടം ആളുകളും ഉണ്ടായിരുന്നു അതിനാൽ അതാണ് പൊതുവായ സോഷ്യൽ മീഡിയ പെരുമാറ്റവും അതിനാൽ മേയർഷിപ്പുകളുടെയും നുറുങ്ങുകളുടെയും സംഭാവനകളുടെയും എണ്ണം നിങ്ങൾക്ക് നൽകുന്ന ചിത്രം 2 എ നോക്കാം അതിനാൽ നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ ചിത്രം 2 എ നിങ്ങൾക്ക് മൂന്ന് മാധ്യമങ്ങളിൽ ഓരോന്നിന്റെയും ലൊക്കേഷൻ അധിഷ്ഠിത ആട്രിബ്യൂട്ടുകളുടെ സഞ്ചിത വിതരണം നൽകുന്നു a എന്നത് ഫോർസ്ക്വയറിനും b എന്നത് Google പ്ലസിനും c എന്നത് ട്വിറ്ററിനുമാണ് ട്വിറ്ററിൽ അവയെല്ലാം ജിയോ ടാഗുചെയ്തിരിക്കുന്നതിനാൽ ഒരു വരി മാത്രമേയുള്ളൂവെന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും അതേസമയം മറ്റൊന്നിൽ സുഹൃത്തുക്കൾ മേയർഷിപ്പുകൾ ലൈക്കുകൾ നുറുങ്ങുകൾ എന്നിവ ഫോർസ്ക്വയറിലുണ്ട് Google പ്ലസിൽ തൊഴിൽ വിദ്യാഭ്യാസം താമസിക്കുന്ന സ്ഥലങ്ങൾ സുഹൃത്തുക്കൾ എന്നിവ ശരിയാണ് അതിനാൽ ഇതാണ് ഗ്രാഫ് സോഷ്യൽ മീഡിയ ഡാറ്റയുടെ കാര്യത്തിൽ ഞങ്ങൾ മുമ്പ് കണ്ടതിന് സമാനമായ ഗ്രാഫ് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും അതിനാൽ വ്യക്തമായും മൂന്ന് വിതരണങ്ങളും ഹെവി ടെയിൽഡ് ആണ് റഫർ സമയം 1931 ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുന്ന ഡാറ്റ എന്ന് ഞാൻ പറഞ്ഞത് മിക്ക ഉപയോക്താക്കൾക്കും കുറച്ച് മേയർ പദവികൾ ഉള്ളതിനാൽ കുറച്ച് ഉപയോക്താക്കൾ ഈ ആട്രിബ്യൂട്ടുകൾ കണക്കിലെടുത്ത് വളരെ സജീവമാണ് വളവുകൾ വളരെ സമാനമാണ് ഓരോ ആട്രിബ്യൂട്ടിലും പരിഗണിക്കപ്പെടുന്ന 90 ശതമാനം ഉപയോക്താക്കൾക്കും 10 മേയർ സ്ഥാനങ്ങൾ വരെ അവകാശമുണ്ടെന്ന് കാണിക്കുന്നു അതിനാൽ അതേ തത്ത്വമാണ് പാരെറ്റോ തത്ത്വം ഞങ്ങൾ ഒരു അധികാര നിയമത്തെക്കുറിച്ച് സംസാരിച്ചു കോഴ്സിൽ ഞങ്ങൾ സംസാരിച്ചത് അതെല്ലാം ഈ ഡാറ്റയിലും പ്ലേ ചെയ്യുന്നു ഇത് കാണിക്കാൻ വളരെ പ്രധാനമാണ് കാരണം നിരൂപകർക്കും വായനക്കാർക്കും ഈ ഡാറ്റ യഥാർത്ഥത്തിൽ ചെയ്ത മറ്റ് സോഷ്യൽ മീഡിയ ഗവേഷണങ്ങളുടെയും വിശകലനങ്ങളുടെയും പ്രതിനിധിയാണെന്ന് വിശ്വസിക്കാൻ കഴിയും കൂടാതെ നിങ്ങൾ 2 കാണുകയാണെങ്കിൽ വീണ്ടും അത് വ്യത്യസ്ത സോഷ്യൽ നെറ്റ്വർക്കുകളെ വിവരിക്കുന്നു ചിത്രം 2 ബി ഗൂഗിളിനായി നിങ്ങളെ കാണിക്കുന്നു കൂടാതെ ഗ്രാഫിൽ കാണിക്കുന്നത് ഒരു ചെറിയ ഭാഗം ഉപയോക്താക്കൾക്ക് ഒന്നിലധികം വലുപ്പമുള്ള ആട്രിബ്യൂട്ടുകളുടെ ലിസ്റ്റ് ഉണ്ട് ഏകദേശം 6 ശതമാനം സ്ഥലങ്ങളിൽ 2 5 വിദ്യാഭ്യാസവും 1 ശതമാനം ജോലിയും ജീവിച്ചു നിങ്ങൾ ട്വിറ്റർ ഡാറ്റ നോക്കുകയാണെങ്കിൽ സിസ്റ്റത്തിലെ ഉപയോക്താക്കൾ പോസ്റ്റുചെയ്ത ഭൂമിശാസ്ത്രപരമായി ടാഗുചെയ്ത ട്വീറ്റുകളുടെ ക്യുമുലേറ്റീവ് വിതരണമായ ചിത്രം 2 സി നമുക്ക് നിരീക്ഷിക്കാനാകും ഈ ലൊക്കേഷൻ വിവരങ്ങളുമായി ബന്ധപ്പെട്ട 5 ശതമാനത്തിൽ താഴെ ഉപയോക്താക്കൾ 10 ൽ കൂടുതൽ ട്വീറ്റുകൾ പങ്കിട്ടിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് ലൊക്കേഷൻ വിവരങ്ങൾ പങ്കിടുന്ന ആളുകളുടെ ഒരു ചെറിയ ശതമാനമാണ് അവയുമായി ബന്ധപ്പെട്ട ലൊക്കേഷനുമായി 10 ലധികം ട്വീറ്റുകൾ ഇപ്പോൾ നമുക്ക് അനുമാനിക്കുന്ന സ്ഥലത്തേക്ക് പോകാം ഈ പേപ്പർ ഉപയോഗിക്കുന്ന രീതിശാസ്ത്രം ഈ ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്ന അവസാന രീതിശാസ്ത്രത്തിന് സമാനമാണ് ഞങ്ങൾ ഉപയോക്താക്കളെ മൂന്ന് ക്ലാസുകളായി തരംതിരിക്കുന്നു ക്ലാസ് 0 ൽ ഒരു വോട്ട് മാത്രമുള്ള ഉപയോക്താക്കളുണ്ട് അത് ഒരു ലൊക്കേഷൻ വിവരങ്ങൾ മാത്രമാണ് അത് പ്രബലമാണ് അത് ഒന്ന് മാത്രമാണ് അങ്ങനെ ഉപയോക്താവിന്റെ ഹോം സിറ്റിക്ക് ഒരു അദ്വിതീയ ഓപ്ഷൻ മാത്രം അനുവദിക്കാൻ അനുവദിക്കുന്നു ക്ലാസ് 1 ൽ ഒന്നിലധികം വോട്ടുകളുള്ള ഉപയോക്താവ് ഉൾപ്പെടുന്നു കഴിഞ്ഞ പേപ്പറിൽ നമ്മൾ കണ്ട ക്ലാസ് 2 ൽ ഒന്നിലധികം വോട്ടുകളുള്ള ഉപയോക്താക്കളും ഉൾപ്പെടുന്നു അതിൽ വേറിട്ടുനിൽക്കുന്ന ഒരു സ്ഥലവുമില്ല അതിനാൽ ക്ലാസുകളുടെ മൂന്ന് വിഭാഗങ്ങൾ 0 1 2 എന്നിവയാക്കിയിരിക്കുന്നു 1 2 എന്നിവയുള്ള പട്ടിക ഞങ്ങൾ കാണും ഇത് ഡാറ്റ എങ്ങനെ ശേഖരിച്ചു വിശകലനം എങ്ങനെ ചെയ്തു ബക്കറ്റിംഗ് എങ്ങനെ ചെയ്തുവെന്ന് കണ്ടെത്താൻ ഇത് അനുവദിക്കുന്നു നിർദ്ദിഷ്ട മാതൃകയുടെ ഫലപ്രാപ്തി അളക്കുന്ന രണ്ട് അളവുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ പരീക്ഷണാത്മക മൂല്യനിർണ്ണയത്തിന്റെ ഫലങ്ങൾ വിലയിരുത്തപ്പെടുന്നു കൃത്യത എന്നത് ക്ലാസ് 0 അല്ലെങ്കിൽ ക്ലാസ് 1 ഉപയോക്താക്കളുടെ ശരിയായ അനുമാനങ്ങളുടെ ഭാഗമാണ് അവിടെ വീണ്ടും ഉണ്ട് സമയം കാണുക 2258 ക്ലാസ് 2 ഉള്ള നിലവിലെ കാര്യം പ്രവർത്തിക്കില്ല അതിനാൽ നിർമ്മിച്ച മാതൃക ഫോർസ്ക്വയറിനുള്ള നാല് സിംഗിൾ ആട്രിബ്യൂട്ട് മോഡലുകളാണ് മേയർഷിപ്പ് ടിപ്പ് ലൈക്ക് ഫ്രണ്ട്സ് എന്നിങ്ങനെ പരാമർശിക്കുന്നു ഗൂഗിൾ പ്ലസ് സുഹൃത്ത് മോഡൽ വിദ്യാഭ്യാസം തൊഴിൽ മോഡൽ എന്നിവയെല്ലാം ഒറ്റ ആട്രിബ്യൂട്ടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ട്വിറ്ററിനെ സംബന്ധിച്ചിടത്തോളം അനുമാന ടാസ്കിൽ ഉപയോഗിക്കുന്ന ഒരേയൊരു ആട്രിബ്യൂട്ട് ജിയോടാഗ് ചെയ്ത ലൊക്കേഷൻ റൈറ്റ് മാത്രമാണ് അതിനാൽ ലൊക്കേഷനെക്കുറിച്ചുള്ള അനുമാനം ശേഖരിക്കുന്നതിലും അനുമാനിക്കുന്നതിലും എന്ത് വിശദാംശങ്ങളാണ് ഉപയോഗിച്ചതെന്ന് അടിസ്ഥാനപരമായി ഇത് വിശദീകരിക്കുന്നു കൂടാതെ ഉപയോക്താക്കളുടെ ഫിൽട്ടറിംഗ് അടങ്ങുന്ന ചങ്ങാതിമാരുടെ മോഡലിന്റെ പരിഷ്ക്കരണത്തിൽ ഞങ്ങൾ പരീക്ഷണം നടത്തുന്ന വിവരമാണിത് തിനാൽ ചങ്ങാതിമാരുടെ മാതൃക നോക്കുന്നതിനുള്ള മറ്റൊരു വഴിയെക്കുറിച്ച് ചിന്തിക്കാനുള്ള മറ്റൊരു മാർഗ്ഗം തീരുമാനമെടുക്കാൻ ആ സ്ഥലത്തുനിന്നുള്ള സുഹൃത്തുക്കളെ ഉപയോഗിക്കുക എന്നതാണ് അതിനാൽ ഇത് വളരെ കുറച്ച് കെ കിലോമീറ്ററിൽ കുറവോ അല്ലെങ്കിൽ അതിലധികമോ കൂടുതലോ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്യുന്നു അനുമാന പ്രക്രിയയിൽ നിന്ന് പരമാവധി സുഹൃത്തുക്കൾ കുറച്ച് സുഹൃത്തുക്കളുള്ള ഉപയോക്താക്കൾക്ക് അനുമാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള മതിയായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഈ ഉപയോക്താക്കൾ അനുമാനത്തിൽ ശബ്ദത്തെ പ്രതിനിധാനം ചെയ്യാമെന്ന അനുമാനമാണ് ആദ്യം നിർദ്ദേശിച്ച പരിഷ്ക്കരണത്തിന് പ്രേരണയായത് എന്നാൽ വളരെയധികം സുഹൃത്തുക്കളുള്ള ഉപയോക്താക്കൾക്ക് അവരുടെ എല്ലാ സുഹൃത്തുക്കളുമായും ശക്തമായ ബന്ധം ഉണ്ടായിരിക്കില്ല അടിസ്ഥാനപരമായി പറയുന്നത് കുറച്ച് കിലോമീറ്ററുകളേക്കാൾ കുറച്ച് ഉപയോക്താക്കളെ എടുക്കുന്ന ഒരു മാതൃക ഞങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് കാരണം അവ ബന്ധിപ്പിക്കാൻ പോകുന്നില്ല ആ ലൊക്കേഷനിൽ നിന്ന് കണക്റ്റുചെയ്തേക്കാവുന്ന ധാരാളം സുഹൃത്തുക്കളും കൂടുതൽ വിവരങ്ങൾ നൽകില്ല അതിനാൽ ഈ പട്ടിക ഈ പേപ്പറിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിശകലനമോ അനുമാനമോ ആണ് ഇത് ഒരു വീടിന്റെയും ഹോം സിറ്റി അനുമാനത്തിന്റെയും അനുമാന മോഡലുകൾക്ക് ലഭിച്ച ഫലങ്ങളുടെ സംഗ്രഹം കാണാനാണ് ഓർക്കുക ഞങ്ങൾ മൂന്ന് നെറ്റ്വർക്കുകൾക്കായി ചെയ്തു ഫോർസ്ക്വയർ ഗൂഗിൾ പ്ലസ് ട്വിറ്റർ മേയർ പദവികൾ ടിപ്പ് സുഹൃത്ത് വിദ്യാഭ്യാസം തൊഴിൽ സുഹൃത്ത് എന്നിവയ്ക്കായി ഉപയോഗിച്ച അനുമാന മോഡലുകൾ ക്ലാസുകൾ വിതരണം ചെയ്തു 0 1 2 0 1 ക്ലാസുകൾ മാത്രമാണ് ഈ ഡാറ്റ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുക റഫർ സമയം 2545 അതിനാൽ ഇത് 51 ചെയ്തു അതിനാൽ അത് വായിക്കാനുള്ള മാർഗ്ഗം മേയർഷിപ്പ് ഉപയോഗിച്ച് ക്ലാസ്സ് 0 51 61 ശതമാനത്തിൽ ഫോഴ്സ്ക്വയർ അക്കൌണ്ടും മേയർഷിപ്പ് ഡാറ്റയും ഉള്ള വിഭാഗത്തിലെ ആ പ്രത്യേക ഉപയോക്താവിനായി നിങ്ങൾക്ക് ഹോം സിറ്റി തിരിച്ചറിയാൻ കഴിയും ക്ലാസ് 1 67 ശതമാനം ക്ലാസ് 1 അടിസ്ഥാനപരമായി ഒന്നിലധികം സ്ഥലങ്ങളുണ്ട് ഒന്ന് പ്രബലമാണ് ഗൂഗിൾ പ്ലസ് ഏറ്റവും ഉയർന്നത് സുഹൃത്തുക്കളോടൊപ്പമാണെന്ന് തോന്നുന്നു പരിഷ്ക്കരണമില്ല ട്വീറ്റുകളിൽ ജിയോ സ്ഥിതി ചെയ്യുന്നതിനാൽ കൃത്യത മറ്റെന്തിനെക്കാളും കൂടുതലാണ് അതിനാൽ നിങ്ങൾക്ക് കഴിയും അതാണ് ഞാൻ പറഞ്ഞത് ട്വിറ്ററിന്റെ കൃത്യത അതിന്റെ ബാക്കിയുള്ളതിനേക്കാൾ കൂടുതലാണെന്ന് തോന്നുന്നു നമുക്ക് ചിത്രം 3 നോക്കാം തുടർന്ന് ഞങ്ങൾ അതിന്റെ വിവരണത്തിലേക്ക് മടങ്ങും അതിനാൽ നിങ്ങൾ ചിത്രം 3 നോക്കുകയാണെങ്കിൽ ക്ലാസ് 0 1 എന്നിവയിലെ ഉപയോക്താക്കൾക്കുള്ള അനുമാനങ്ങൾ പരിഗണിക്കുന്ന മൊത്തം കൃത്യത ചിത്രം 3 കാണിക്കുന്നു കൂടാതെ ഗ്രാഫിന്റെ x ആക്സിസിൽ വ്യക്തമാക്കിയ k min k max എന്നിവയുടെ വിവിധ മൂല്യങ്ങൾക്കായി പരിഷ്കരിച്ച സുഹൃത്ത് മോഡൽ പരിരക്ഷിക്കുന്ന ഉപയോക്താക്കളുടെ എണ്ണം പലപ്പോഴും പട്ടിക 2 ലെ ഫലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പരിഷ്ക്കരണം മോഡൽ കൃത്യത മെച്ചപ്പെടുത്തുന്നതായി ഞങ്ങൾ കാണുന്നു പ്രത്യേകിച്ച് ഗൂഗിളിന് 21 നേട്ടം അതിനാൽ അടിസ്ഥാനപരമായി ഈ എക്സ് ആക്സിസ് കിലോമീറ്ററുകൾക്കുള്ളിൽ ഉപയോഗിച്ച മോഡലാണ് കൂടാതെ വൈ ആക്സിസ് കവർ ചെയ്ത ഉപയോക്താക്കളുടെ ശതമാനമാണ് അതിനാൽ ഗൂഗിൾ പ്ലസ് കാണുകയാണെങ്കിൽ ഒരു പരിഷ്കൃത സുഹൃത്ത് മോഡലിനായി നിങ്ങൾ ഹോം സിറ്റിയെ അനുമാനിക്കുമോ അതാണ് മിനിറ്റും മാക്സും നീക്കംചെയ്തതെന്ന് ഞങ്ങൾ പറഞ്ഞു ഫോർസ്ക്വയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സുഹൃത്തുക്കൾ ഗൂഗിൾ പ്ലസിന് കൂടുതലാണ് അതാണ് അവിടെയുള്ള അനുമാനം മറ്റൊരു രസകരമായ നിഗമനം ഉണ്ടെന്ന് കാണുക സമാനമായ പേപ്പർ കഴിഞ്ഞ പേപ്പറിൽ ഞങ്ങൾ കണ്ടു അവിടെ ഞങ്ങൾ ഫോർസ്ക്വയർ മാത്രമാണ് കണ്ടത് ഫോർസ്ക്വയർ ഗൂഗിൾ പ്ലസ് ട്വിറ്റർ എന്നിവയ്ക്കായി ഞങ്ങൾ ഇത് കാണുന്നു ചിത്രം 4 തെറ്റായ അനുമാനങ്ങളുമായി മാത്രം യോജിക്കുന്നു ആന്തരിക ഗ്രാഫ് അടിസ്ഥാനപരമായി പുറം ഗ്രാഫിലേക്ക് സൂം ചെയ്തിരിക്കുന്നു ഫോർസ്ക്വയറിലെ 46 ശതമാനം ദൂരവും ഗൂഗിൾ പ്ലസ് ട്വിറ്റർ എന്നിവയിൽ 27 ശതമാനവും 50 കിലോമീറ്ററിൽ താഴെയാണെന്നും ഇത് കാണിക്കുന്നു അതിനാൽ അതാണ് ഇവിടെ 50 കിലോമീറ്റർ അകത്തെ ഗ്രാഫിന്റെ ഈ ഭാഗം 50 കിലോമീറ്റർ എന്നത് അയൽ നഗരങ്ങൾ തമ്മിലുള്ള ന്യായമായ ദൂരമാണ് അങ്ങനെ ഈ ഫലങ്ങൾ ശരിയായ അനുമാനവുമായി സംയോജിപ്പിച്ച് നമുക്ക് 50 കിലോമീറ്റർ ചുറ്റളവിൽ ശരിയായ അനുമാനങ്ങൾ നടത്താം ഫോഴ്സ്ക്വയറിൽ 78 5 ശതമാനവും ഗൂഗിൾ പ്ലസിൽ 64 ഉം ട്വിറ്ററിൽ 87 ഉം നേട്ടം കൈവരിക്കുന്നു ഇത് ഗ്രാഫിലെ പ്രാതിനിധ്യമാണ് ഇത് x ആക്സിസ് ആണ് ഞാൻ ഊഹിച്ചതും പ്രഖ്യാപിച്ചതുമായ ഹോം സിറ്റിയുടെ ദൂരമാണ് അത് ഞാൻ പ്രഖ്യാപിച്ച ഒന്നാണ് എന്റെ അക്കൌണ്ട് PK ponguru അക്കൌണ്ടിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു കാര്യത്തിന് ഒരു സ്ഥലമുണ്ട് ഇവ രണ്ടും തമ്മിലുള്ള ദൂരം എത്രയാണെന്നത് പ്രക്രിയയിലൂടെ ഞാൻ ഊഹിച്ചു വ്യത്യാസം കുറയുന്നതാണ് നല്ലത് ഇൻസൈഡ് ഗ്രാഫ് നിങ്ങൾ നിമജ്ജനം ചെയ്തതാണെന്ന് കാണിക്കുന്നു ഇത് ഏകദേശം 50 കിലോമീറ്റർ വരെ ഞങ്ങൾക്ക് ഏകദേശം 46 ശതമാനം നേടാൻ കഴിഞ്ഞു ഇവിടെ നിങ്ങൾ കണ്ടാൽ 50 ശതമാനവും ഇത് ഏകദേശം 46 ശതമാനവും ആണെന്ന് കാണിക്കുന്നു അതിനാൽ ഫോർസ്ക്വയറിലെ ദൂരത്തിന്റെ 46 ശതമാനം യഥാർത്ഥത്തിൽ 50 കിലോമീറ്റർ പിശകിനേക്കാൾ കുറവാണെന്ന് അവർ നിങ്ങൾക്ക് കാണിച്ചുതരുന്നു അത് വെറും അയൽ നഗരങ്ങൾ അയൽ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒരേ നഗരത്തിലായിരിക്കാം അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് വാസസ്ഥലത്തിന് യഥാർത്ഥത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരേ കാര്യം ഇപ്പോൾ ഈ ഗ്രാഫിൽ ഞങ്ങൾ ചെയ്തത് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഹോം സിറ്റി മാത്രമാണ് കാണിക്കുന്നത് അതേസമയം ഈ ഗ്രാഫ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഹോം റെസിഡൻസ് കാണിക്കുന്നു അതിനാൽ താമസത്തിനുള്ള ഗ്രാഫ് ഇതാ ചുവപ്പ് എന്നത് ഗൂഗിൾ പ്ലസ് ആണ് നീലയാണ് ട്വിറ്റർ പച്ചനിറം ഫോർസ്ക്വയറാണ് നിങ്ങൾക്ക് ഗ്രാഫിന്റെ ഉൾവശം ഇവിടെ നിന്നും കാണാം അത് 0 മുതൽ 20 കിലോമീറ്റർ വരെയാണ് എന്നാൽ ഇത് 0 മുതൽ 20 വരെയാണ് എന്നാൽ അവയെല്ലാം പത്തിന്റെ ആയിരം മടങ്ങു ദൂരെ ആണ് എന്ന ദൂരത്തിൽ ആണ് ഗ്രാഫിൽ ഉള്ളത് അതിനാൽ ട്വിറ്ററിന് ഞങ്ങൾക്ക് 35 ശതമാനം ഉണ്ട് ട്വിറ്റർ എവിടെയാണ് അതിനാൽ ട്വിറ്റർ നീല വരയാണ് നീല രേഖ ഇവിടെയാണ് ദൂരത്തിന്റെ 0 ശതമാനത്തിന് തുല്യമായ 35 ശതമാനം അനുമാനങ്ങളും നിങ്ങൾക്ക് കാണാം അതിനാൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അതാണ് ഇവിടെ ആരംഭ പോയിന്റ് അതാണ് നിർദ്ദിഷ്ട മാതൃക ഉപയോക്തൃ വസതി കൃത്യമായി അനുമാനിച്ചത് ഇത് വളരെ ഉയർന്നതും ഇത് വളരെ കൃത്യവുമായതിന്റെ കാരണം കാരണം ജിയോ ടാഗുചെയ്ത ശരിയായ ട്വീറ്റുകളാണ് ഞങ്ങൾ ശേഖരിച്ചത് 73 67 ശതമാനം 20 കിലോമീറ്റർ പരിധിയിലാണ് അതിനാൽ ഇത് ഇവിടെ 20 കിലോമീറ്ററാണെങ്കിൽ നീല രേഖ കണ്ടാൽ അത് 76 ശതമാനമാണ് 73 ശതമാനമാണ് അത് 20 കിലോമീറ്റർ വ്യത്യാസത്തിനകത്താണ് വീട് എവിടെയാണെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഉപയോക്താക്കൾ അവരുടെ വസതികൾക്ക് സമീപം ട്വീറ്റ് ചെയ്യുന്നുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് ഓഖ്ലയിൽ താമസിക്കാൻ കഴിയുമെന്നതിനാൽ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപം നിന്ന് 20 കിലോമീറ്ററിൽ താഴെയുള്ള ട്വീറ്റ് ചെയ്യാം ഞാൻ ഒരു മത്സരം കാണാൻ പോയി ഞാൻ ശരിക്കും ട്വീറ്റ് ചെയ്തു ഇത് ജിയോ ടാഗുചെയ്തിരിക്കുന്നു അതിനാൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന 20 കിലോമീറ്റർ ഫോർസ്ക്വയർ ഫലങ്ങൾ നോക്കിയാൽ ഫോർസ്ക്വയർ പച്ചയാണെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു നിഗമനങ്ങളിൽ 52 ശതമാനവും 5 കിലോമീറ്ററിൽ താഴെയുള്ള ചുറ്റളവിലുള്ളതാണെന്ന് ഞങ്ങൾ കണ്ടെത്തുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ ഒരു പച്ച കാണുന്നുവെങ്കിൽ നിങ്ങൾ ആ ഘട്ടത്തിൽ പോയാൽ അത് ഏകദേശം 52 ശതമാനമാണ് 52 73 ശതമാനം 5 കിലോമീറ്ററിൽ കുറവാണ് 20 കിലോമീറ്ററിൽ 77 ശതമാനം കുറവ് അതായത് ഇവിടെ 77 ശതമാനം അവസാനമായി ഗൂഗിൾ പ്ലസിനായി ഉപയോക്താക്കളുടെ 5 23 ശതമാനം പേർക്ക് മാത്രമേ കൃത്യമായ താമസസ്ഥലം അനുമാനിക്കാൻ കഴിയുകയുള്ളൂ കാരണം ഉപയോക്താവ് പഠിച്ചതോ ജോലി ചെയ്തതോ ആയ സ്ഥലങ്ങളുടെ ആട്രിബ്യൂട്ടുകൾ ഞങ്ങൾ ഉപയോഗിക്കുന്നു കാരണം ഞങ്ങൾ അവരുടെ തൊഴിൽ വിദ്യാഭ്യാസ വിശദാംശങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ശരിയാണ് അതിനാൽ ഈ പേപ്പർ അവസാനിക്കുന്നത് അങ്ങനെയാണ് നമുക്ക് വീണ്ടും അമൂർത്തത്തിലേക്ക് പോകാം എന്ന് കാണിക്കാൻ അതായത് അവർ ഫോർസ്ക്വയർ ഗൂഗിൾ പ്ലസ് ട്വിറ്റർ എന്നിവയിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗിച്ചതായി കാണിക്കുന്നു വീടിന്റെ സ്ഥാനം അനുമാനിക്കാൻ അവർ ഈ ഡാറ്റ ഉപയോഗിച്ചു ഇത് ഫോർസ്ക്വയറിൽ മാത്രം ചെയ്ത അവസാന പേപ്പറിന്റെ വിപുലീകരണമോ അടുത്ത ഘട്ടമോ ആണ് അവർക്ക് ഏകദേശം 67 72 82 ശതമാനം കൃത്യതയോടെ ഹോം സിറ്റിയും ഹോം ലൊക്കേഷനും കണ്ടെത്താൻ കഴിഞ്ഞു കാരണം ട്വിറ്ററിന്റെയും തുടർന്ന് ഫോർസ്ക്വയറിന്റെയും കാര്യത്തിൽ വളരെ കൃത്യതയോടെ എന്നാൽ കുറഞ്ഞ ഡാറ്റയോടെ ഒരു Google പ്ലസിൽ അതോടെ ഞാൻ ഈ പ്രത്യേക പേപ്പർ നിർത്തുന്നു ഞാൻ നിങ്ങളെ ഉടൻ കാണും